നമ്മൾ കോഴ്സിന്റെ പാതിവഴിയിലാണ് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വിശദമായ അവലോകനം ചെയ്തു അതിനുശേഷം നമ്മൾ ക്രാക്ക് വളർച്ചയും തുടർന്ന് ഫ്രാക്ച്ചർ സംവിധാനങ്ങളും കണ്ടു എനർജി റിലീസ് നിരക്കും നമ്മൾ കുറച്ച് പഠിച്ചു ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡുകൾ എന്നിവയെക്കുറിച്ച് നമ്മൾ വിശദമായ ചർച്ച നടത്തി അതിൽ നമ്മൾ സിംഗുലാർ സൊല്യൂഷൻ പൂർണ്ണമായും പഠിച്ചു മൾട്ടി പാരാമീറ്റർ സൊല്യൂഷന്റെ ആവശ്യകത നമ്മൾ കണ്ടുതുടങ്ങി നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുന്നതിനുമുമ്പ് നിങ്ങളുടെ മനസ്സിലുള്ള പല സംശയങ്ങളും നീക്കാൻ ഞാൻ ശ്രമിക്കുന്നത് അഭികാമ്യമാണ് അതിനാൽ ഇത് നമുക്ക് ഒരു ചർച്ചാ സെഷനായി നടത്താം ക്ലാസിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി കൊള്ളുക റിലാക്സേഷൻ അനലോഗിയിൽ സ്ട്രെയിൻ എനർജി വിലയിരുത്തുമ്പോൾ നമ്മൾ ത്രികോണാകൃതിയിലുള്ള പ്രദേശം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു ക്രാക്കിന്റെ സാന്നിധ്യത്തിൽ സ്ട്രെയിൻ എനെർജി വിലയിരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു നോക്കൂ ഇത് ലളിതമായ ഒരു ജോലിയല്ല ഡൈമൻഷണൽ അനാലിസിസ് റിലാക്സേഷൻ അനലോഗി ക്രാക്ക് ഫെയ്സ് ഡിസ്പ്ലേസ്മെന്റുകളെ അടിസ്ഥാനമാക്കിയുള്ള യഥാർത്ഥ കണക്കുകൂട്ടൽ എന്നിവ അടിസ്ഥാനമാക്കി ഇത് എത്തിച്ചേരാമെന്ന് നമ്മൾ കണ്ടു വാസ്തവത്തിൽ ഇത് മാത്രമേ ഉദ്ദേശിച്ച ഫലം നൽകൂ നമ്മൾ പ്രാഥമിക ഘട്ടത്തിൽ ഫ്രാക്ചർ മെക്കാനിക്സ് പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് ചെയ്തു അതിനാൽ ഈ റിലാക്സേഷൻ അനലോഗിയുടെ യഥാർത്ഥ പങ്ക് എന്താണെന്ന് കണ്ടെത്തുക എന്നതാണ് ആശയം നിങ്ങളുടെ പഠന പ്രക്രിയയുടെ ഭാഗമായി നിങ്ങൾ അത് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇവിടെയുള്ളത് നമ്മുടെ മറ്റ് പരിഗണനകളിൽ നിന്ന് ഒരു ക്രാക്കിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ എനെർജി എന്താണെന്ന് നമ്മൾക്കറിയാം ഈ ഫലം അറിയാം ഈ ഫലം മാത്രം ഉപയോഗിച്ച് നമ്മൾ റിലാക്സേഷൻ അനലോഗി ചർച്ച ചെയ്യുന്നു അതിനാൽ റിലാക്സേഷൻ അനലോഗിയുടെ ഉദ്ദേശം ഈ ഫലം നേടുക മാത്രമല്ല എനർജി റിലീസ് റേറ്റ് ഭാഗമായി വികസിപ്പിച്ചെടുത്ത ഈ ആശയത്തെ വിലമതിക്കുക ഫോക്കസ് വ്യത്യസ്തമാണ് നമ്മൾ എന്താണ് ചെയ്തതെന്ന് നോക്കാം നമ്മൾ ചെയ്തത് നമ്മൾ ഒരു തിക്നെസ്സ് ബി ഉള്ള പ്ലേറ്റ് എടുത്ത് നീട്ടി നമ്മൾ പറഞ്ഞു സെന്ററിൽ ഒരു ക്രാക്ക് ഇടുക അടയാളപ്പെടുത്തിയത് സ്ട്രെയിൻ എനെർജി റിലീസ് ചെയ്ത പ്രദേശം ശ്രദ്ധിക്കുക ഇതിനെ ത്രികോണം ആയി അടയാളപ്പെടുത്തുന്നത് ആകസ്മികമാണ് നിങ്ങൾക്ക് ഒരു പരാബോള എടുക്കാം നിങ്ങൾക്ക് സങ്കീർണ്ണമായ ഒരു കർവ് എടുക്കാം നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തും ചെയ്യാം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ക്രാക്കുകളുടെ രൂപവത്കരണത്തിൽ ആണ് അയൽ പ്രദേശത്തെ സ്ട്രെയിൻ എനർജി രണ്ട് പുതിയ പ്രതലങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി അതാണ് കാണിക്കാൻ ശ്രമിക്കുന്നതും കണക്കുകൂട്ടലുകളിൽ നമ്മൾ ചെയ്തതും നിങ്ങൾ കണക്കുകൂട്ടൽ നോക്കുകയാണെങ്കിൽ ത്രികോണത്തിന്റെ വോള്യം ഞാൻ പറയുന്നു ഇതെല്ലാം ഞാൻ പറയുന്നു പക്ഷേ ലാംഡ എന്ന ഒരു ഘടകവും ഞാൻ കൊണ്ടുവരുന്നു നമ്മൾ ലാംഡ കണ്ടുപിടിച്ചിട്ടില്ല ഒരു ത്രികോണത്തെ അടിസ്ഥാനമാക്കി ഞാൻ ലാംഡയെ വിലയിരുത്തുന്നുണ്ടെങ്കിൽ ഈ ചോദ്യം സാധുവാണ് എന്തുകൊണ്ടാണ് ത്രികോണം ഇത്ര പ്രത്യേകമായിരിക്കുന്നത് ക്രാക്കിന് അടുത്തുള്ള ഒരു പ്രദേശം രണ്ട് പുതിയ പ്രതലങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുമെന്ന് നമ്മൾ സൂചിപ്പിച്ചു നേർത്ത പ്ലേറ്റുകൾക്കായി ലാംഡ ഈക്വൽ റ്റു പൈ ബൈ 2 എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു അതിനാൽ നിങ്ങൾ ഒരു ത്രികോണം എടുക്കുന്നുണ്ടോ ഒരു പരാബോള എടുക്കുന്നുണ്ടോ സങ്കീർണ്ണമായ ആകൃതി എടുക്കുന്നുണ്ടോ എന്നത് ഇത് പരിഹരിക്കുന്നു ഇവിടെ ആശയം ക്രാക്കിന് സമീപമുള്ള പ്രദേശമാണ് രണ്ട് പുതിയ ക്രാക്ക് പ്രതലങ്ങളുടെ രൂപീകരണത്തിനായി ഈ പ്രദേശം സ്ട്രെയിൻ എനർജി റിലീസ് ചെയ്തു എന്തുകൊണ്ടാണ് നമ്മൾ റിലാക്സേഷൻ അനലോഗിയിലേക്ക് നോക്കുന്നത് പൊട്ടുന്ന മെറ്റീരിയലിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നത് റിലാക്സേഷൻ അനലോഗി ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു സൈക്കിൾ ട്യൂബ് എടുത്തിട്ടുണ്ടെന്ന് കരുതുക ഒരു ഷീറ്റ് റബ്ബർ എടുത്ത് അത് വലിക്കുക തുടർന്ന് നിങ്ങൾ ക്രാക്ക് കൊടുക്കുക ക്രാക്ക് തുറക്കുകയും ചെയ്യുന്നു നിങ്ങൾ നോക്കേണ്ടത് ഇതാണ് ഇത് നിങ്ങളുടെ വിഷ്വലൈസേഷൻ പ്രക്രിയയെ സഹായിക്കുന്നതിന് മാത്രമാണ് ക്രാക്ക് രൂപപ്പെടുന്നതിനായി സിസ്റ്റത്തിൽ നിന്ന് എനർജി പുറത്തുവിടാം കൂടാതെ നിരവധി ക്യാച്ചുകളും ഇവിടെയുണ്ട് നിങ്ങൾക്കറിയാമോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ക്രാക്കിന്റെ സാന്നിധ്യത്തിൽ സ്ട്രെയിൻ എനെർജി കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് ക്രാക്ക് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്തിട്ടില്ല ഒരു ക്രാക്കിന്റെ സാന്നിധ്യത്തിൽ സ്ട്രെയിൻ എനെർജി കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വികസിപ്പിച്ചുകഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ പറഞ്ഞു ഒരു ക്രാക്ക് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു ആ ക്രാക്ക് തുറക്കുന്നു തുറക്കുന്നതിന് ആവശ്യമായ ശക്തി എന്താണ് നമ്മൾ കണക്കാക്കുന്ന രീതി അതാണ് ഇവിടെ വീണ്ടും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് പ്രൊപോഗേഷൻ നടത്തുന്നതിന് മുൻപ് ഞാൻ ക്രാക്ക് അവതരിപ്പിക്കേണ്ടതായിരുന്നു കുറച്ച് സമയത്തിനുശേഷം സിസ്റ്റത്തിന്റെ സ്ട്രെയിൻ എനർജിയിൽ നിന്ന് ക്രാക്ക് സ്വയം വളരും നിങ്ങൾ അത് ആ രീതിയിൽ ദൃശ്യവൽക്കരിക്കുകയാണെങ്കിൽ ഈ ഉദാഹരണം സ്വയം പൂർത്തിയാകില്ല ഇവിടെ വീണ്ടും നമ്മൾ ഒന്നുകൂടി ചിന്തിക്കണം ഷീറ്റ് നീട്ടി പെട്ടെന്ന് ഒരു ക്രാക്ക് തുറക്കുകയും നിങ്ങൾ എനർജി കണക്കാക്കുകയും ചെയ്യുന്നു അതിനാൽ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ട് പുതിയ പ്രതലങ്ങളുടെ രൂപവത്കരണത്തിലാണ് ക്രാക്കിന്റെ സമീപപ്രദേശങ്ങളിലെ സ്ട്രെയിൻ എനെർജി ഇതിന് കാരണമാകുമായിരുന്നു അതിനാൽ ഫോക്കസ് രണ്ട് പുതിയ സർഫസ് സൃഷ്ടിക്കുന്നതിനായി സിസ്റ്റത്തിന്റെ സ്ട്രെയിൻ എനർജി കുറയുന്നുവെന്ന് മനസിലാക്കാൻ മാത്രമാണ് അതുകൊണ്ടാണ് യുക്തിസഹമായത് എന്താണെന്നും ഞാൻ സൂചിപ്പിച്ചത് ഒരു ക്രാക്ക് സ്വയം വ്യാപിക്കുമ്പോൾ കെ ജി എന്നിവയ്ക്കിടയിൽ ഒരു ഐഡന്റിറ്റി കണ്ടെത്തുമ്പോൾ നമ്മൾ അത് വളരെ ആസൂത്രിതമായി ചെയ്തു വാസ്തവത്തിൽ എനർജി റിലീസ് നിരക്ക് വികസിപ്പിക്കുന്നതിന് ഇത് കൂടുതൽ ആകർഷകമാണ് നിങ്ങൾ ശരിക്കും സാഹിത്യവും നോക്കുകയാണെങ്കിൽ ഒരു ക്രാക്കിന്റെ സാന്നിധ്യത്തിൽ സ്ട്രെയിൻ എനെർജി കണക്കാക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് കോംപ്ലയൻസ് സമീപനം ഉപയോഗിക്കാൻ ഇർവിൻ നിർദ്ദേശിച്ചത് നിങ്ങൾ ഒരു കോംപ്ലയൻസ് സമീപനം ഉപയോഗിക്കുമ്പോൾഎനിക്ക് പരീക്ഷണം നടത്തി dC ബൈ da കണ്ടെത്താം അതിനാൽ റിലാക്സേഷൻ അനലോഗിയുടെ ശ്രദ്ധ ക്രാക്കിന്റെ സമീപപ്രദേശങ്ങളിലെ സ്ട്രെയിൻ എനെർജി രണ്ട് പുതിയ പ്രതലങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുമെന്ന ധാരണ നിങ്ങൾക്ക് നൽകുക മാത്രമാണ് വാസ്തവത്തിൽ നിങ്ങളുടെ ഡിസൈൻ കോഴ്സുകളിൽ പോലും ഷിയർ എന്ന ആശയം എങ്ങനെ മനസിലാക്കാമെന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ ഇതാണ് ചെയ്യുക നിങ്ങൾ ഒരു ഷാഫ്റ്റ് എടുത്ത് അവിടെ ഒരു കീ ഇടുക അത് ടോർഷന് വിധേയമാവുകയും ഷിയറിങ് പ്രവർത്തനം കീയുടെ വഴിയിൽ നടക്കുന്നുവെന്ന് നിങ്ങൾ ഭാവനയിൽ കാണുകയും വേണം നിങ്ങൾക്ക് ശക്തമായ ഒരു മെറ്റാലിക് കീ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൃശ്യവൽക്കരിക്കാൻ പ്രയാസമാണ് അവിടെ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളിലൊന്ന്താക്കോൽ ശീതീകരിച്ച വെണ്ണ കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് സങ്കൽപ്പിക്കുക ഷാഫ്റ്റ് വളച്ചൊടിക്കുമ്പോൾ നിങ്ങൾക്ക് ദൃശ്യവൽക്കരിക്കാനാകും ഷിയറിങ് പ്രവർത്തനം നടക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തും സംശയാസ്പദമായ ചോദ്യം നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും അതിനാൽ റിലാക്സേഷൻ വീക്ഷണത്തെ ആ വീക്ഷണകോണിൽ മാത്രം നോക്കേണ്ടതുണ്ട് നമ്മൾ ശരിക്കും കണക്കുകൂട്ടൽ നടത്തിയിട്ടില്ല ലാംഡ ഈക്വൽ റ്റു പൈ ബൈ 2 എന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ത്രികോണാകൃതിയിൽ പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം ലഭിച്ചുവെന്ന് ഞാൻ കരുതുന്നു സർ എനർജി റിലീസ് റേറ്റ് എന്നാൽ ക്രാക്കിന്റെ യൂണിറ്റ് വിപുലീകരണത്തിന് ആവശ്യമായ എനർജി ആണെന്ന് നമുക്കറിയാം അതേസമയം R ഫ്രാക്ച്ചറിന്റെ റെസിസ്റ്റൻസ് ആണ് എന്നാൽ സ്ഥിരമായ ഫ്രാക്ച്ചറിൽ G R എന്നിവ എങ്ങനെ തുല്യമാകും ഫ്രാക്ചർ സിദ്ധാന്തം നമ്മൾ എങ്ങനെ വികസിപ്പിച്ചെടുത്തുവെന്ന് നിങ്ങൾ നോക്കേണ്ടതുണ്ട് നമ്മൾ കണ്ട പ്രാതിനിധ്യത്തിന്റെ ഒരു രൂപമാണിത് സിഗ്മ ഇന്റു റൂട്ട് എ റൂട്ട് ഓഫ് 2 ഇ ഗാമ ഡിവൈഡഡ് ബൈ പൈയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്രാഫിക്കൽ പ്രാതിനിധ്യത്തിന്റെ ഒരു രൂപമാണിത് ഗ്രാഫിക്കൽ പ്രാതിനിധ്യത്തിന്റെ മറ്റൊരു രൂപവും നമ്മൾ കണ്ടു അവിടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു റെസിസ്റ്റൻസ് ആർ ഇതാണ് നിങ്ങൾ സ്ട്രെസ് വർദ്ധിപ്പിക്കുമ്പോൾ പൊട്ടുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ നിങ്ങൾ കണ്ടെത്തുന്നത് ക്രിട്ടിക്കൽ സ്ട്രെസ്സിന്റെ ഒരു പ്രത്യേക മൂല്യത്തിൽ നിങ്ങൾക്ക് ഫ്രാക്ച്ചർ അസ്ഥിരത നടക്കുന്നു ഇവിടെ G ഈക്വൽ റ്റു R പൊട്ടുന്ന വസ്തുക്കൾക്ക് ഒരു പ്രശ്നവുമില്ല ഡക്റ്റൈൽ മെറ്റീരിയലുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത്പ്ലെയ്ൻ സ്ട്രെയ്നിന്റെ കാര്യത്തിൽ R സ്ഥിരമല്ല എന്നാൽ ഇത് വ്യത്യാസപ്പെടുന്നു പക്ഷേ വ്യത്യാസം ചെറുതാണ് ഇവിടെ വീണ്ടും എപ്പോൾ ഫ്രാക്ച്ചർ അസ്ഥിരത സംഭവിക്കുന്നു G R ആകുമ്പോൾ നിങ്ങൾ ഒരു സ്ട്രക്ചറിൽ അടിച്ചേൽപ്പിക്കുന്ന സ്ട്രെസ് ലെവൽ എന്താണ് എന്നതിന് അനുസരിച്ച് ഇത് നിർണ്ണയിക്കപ്പെടുന്നു ഇത് സിഗ്മ 1 ആകുമ്പോൾ ഫ്രാക്ച്ചർ അസ്ഥിരത സംഭവിക്കുന്നില്ല സിഗ്മ 1 സിഗ്മ സിയിൽ എത്തുമ്പോൾ മാത്രമേ ഫ്രാക്ചർ അസ്ഥിരത ഉണ്ടാകൂ അതിനാൽ നിങ്ങൾക്ക് G ഈക്വൽ റ്റു R എന്ന അവസ്ഥയുണ്ട് ഒരു പ്ലെയ്ൻ സ്ട്രെസ് സാഹചര്യം നമുക്ക് നോക്കാം ഒരു പ്ലെയ്ൻ സ്ട്രെസ് സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും R കർവിന്റെ സ്വഭാവം തികച്ചും വ്യത്യസ്തമാണ് ഇത് വളരെ കുത്തനെയുള്ളതാണ് നിങ്ങൾക്ക് സിഗ്മ 1 എന്ന സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അനുബന്ധ എനർജി റിലീസ് റേറ്റ് G1 ആണ് ഇത് R ന്റെ മൂല്യത്തേക്കാൾ വളരെ കുറവാണ് അതിനാൽ ക്രാക്കിന് ഒന്നും സംഭവിക്കില്ല ക്രാക്ക് അങ്ങനെ തന്നെ തുടരും ഞാൻ ലോഡ് വർദ്ധിപ്പിക്കുമ്പോൾ സിഗ്മ 1 മുതൽ സിഗ്മ 2 വരെ ലോഡ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക അതായത് സമയം ജി ഈക്വൽ റ്റു ആർ ആകും അതിനാൽ ഇപ്പോൾ ഫ്രാക്ച്ചർ അസ്ഥിരത സാധ്യമാണ് സ്ട്രെസ് സിഗ്മ 3 ലേക്ക് ഉയർത്തുന്നുവെന്ന് കരുതുക സ്ട്രെസ് സിഗ്മ 1 ൽ നിന്ന് സിഗ്മ 2 ലേക്ക് ഉയർത്തുമ്പോൾ ക്രാക്ക് വളരുന്നില്ല എന്നാൽ സിഗ്മ 2 ൽ എത്തിയ ശേഷം ക്രാക്ക് പ്രൊപോഗേറ്റ് ചെയ്യാൻ തയ്യാറാണ് സിഗ്മ 2 ചെറുതായി വർദ്ധിക്കുമ്പോൾ സിഗ്മ 3 അല്ല അല്പം കൂടി വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ജി ഈക്വൽ റ്റു R ന് തുല്യമായ ഒരു സാഹചര്യം ഉണ്ട് എന്നാൽ നിലവിലെ ജി മുമ്പത്തെ ജി യേക്കാൾ വലുതാണ് അതിനാൽ ആ പരിധി വരെ ക്രാക്ക് ഒരു മുന്നോട്ടു പോകും സ്ട്രെസ് ലെവൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇത് ഗ്രാഫിൽ ഇതുപോലെ നീങ്ങിക്കൊണ്ടിരിക്കും ഇത് ജി സിയിൽ എത്തുമ്പോൾ ഏതെങ്കിലും ചെറിയ വർദ്ധനവ് സ്ട്രക്ച്ചറിന്റെ വിനാശകരമായ പരാജയത്തിന് കാരണമാകും അതിനാൽ നിങ്ങൾക്ക് ആവശ്യമായ ജി ഈക്വൽ റ്റു ആർ അവസ്ഥ ഉണ്ടായിരിക്കണം മതിയായ അവസ്ഥ ഡോ GI ബൈ ഡോ Dഎ ഈക്വൽ റ്റു ഡോ RI ബൈ ഡോ a ആണ് അതിനാൽ ഈ മേഖലയിൽ ആവശ്യമായ അവസ്ഥ മാത്രം തൃപ്തികരമാണ് അതിനാൽ ആവശ്യമായ അവസ്ഥ തൃപ്തിപ്പെടുമ്പോഴെല്ലാം ലോഡ് വർദ്ധിപ്പിച്ചാൽ ക്രാക്ക് ചെറിയ അളവിൽ വ്യാപിക്കും ലോഡ് നിർത്തിയാൽ ക്രാക്കും നിൽക്കും നിങ്ങൾ ഒരിക്കൽ ഈ സ്ഥാനത്തേക്ക് വന്നുകഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ചലനം പോലും ക്രാക്കിനെ വിനാശകരമായി വ്യപിപ്പിക്കും അതിനാൽ നിങ്ങൾ ശരിക്കും നോക്കേണ്ടത് നിങ്ങൾക്ക് സ്ഥിരമായ ഫ്രാക്ച്ചർ ഉണ്ട് അസ്ഥിരമായ ഫ്രാക്ച്ചർ ഉണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു പ്ലെയിൻ സ്ട്രെസ് ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾ ഒരു പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിൽ ചെയ്യുന്നതുപോലുള്ള ഷാർപ്പ് ആയ ക്രാക്ക് അവതരിപ്പിക്കേണ്ടതില്ല ഫ്രാക്ച്ചർ ടഫ്നെസ്സ് പരിശോധനയുടെ ഭാഗമായി നമ്മൾ അത് കാണും കാരണം എല്ലാ പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിലും സ്ഥിരമായ ഫ്രാക്ച്ചർ കാരണം നിങ്ങൾക്ക് സ്വാഭാവിക ക്രാക്ക് ഉണ്ടാകുന്നു അതിനുശേഷം അസ്ഥിരമായ ഫ്രാക്ച്ചർ ഉണ്ടാകും ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം ഫെറ്റീഗ് കാര്യത്തിൽ ക്രാക്ക് വളരാൻ പരിമിതമായ സമയമെടുക്കും ഒരു യഥാർത്ഥ പരിശീലനത്തിൽ നിങ്ങൾക്ക് സ്ഥിരമായ ഫ്രാക്ച്ചർ ഉണ്ട് തുടർന്ന് അസ്ഥിരമായ ഫ്രാക്ച്ചർ ഉണ്ടാകും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം ചിത്രത്തിൽ കാണിക്കുമ്പോൾ സിഗ്മ 2 വളരെ ചെറുതും സിഗ്മ സി വളരെ ഉയർന്നതുമാണെന്ന് കാണിക്കുന്നു പോയിന്റ് വ്യക്തമാക്കുന്നതിനായി ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫിക്കൽ പ്രാതിനിധ്യം കാണിച്ചിരിക്കുന്നു അതിനാൽ G ഈക്വൽ റ്റു R ആകുമ്പോൾഈ അവസ്ഥയെ തൃപ്തിപ്പെടുത്താൻ എനർജി റിലീസ് ചെയ്യുന്നു ക്രാക്കിന്റെ ചില ചെറിയ വിപുലീകരണം കാണാം എന്നാൽ അത് വിനാശകരമായിരിക്കില്ല അതാണ് ചർച്ചചെയ്യപ്പെടുന്നത് റെസിസ്റ്റൻസും ഫ്രാക്ച്ചർ ടഫ്നെസും ഒന്നാണോ പ്ലെയ്ൻ സ്ട്രെസ്സിനും പ്ലെയ്ൻ സ്ട്രെയ്നിനും നമ്മൾ ഗ്രാഫ് നോക്കിയതായി നിങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ഈ പ്ലെയ്ൻ സ്ട്രെസ്സിന്റെ ഗ്രാഫ് നോക്കുന്നു മെറ്റീരിയലിന്റെ കാര്യത്തിൽ നിലവിലുള്ള റെസിസ്റ്റൻസ് ആണിത് ക്രാക്ക് പുരോഗമിക്കുമ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയലുകളുടെ കാര്യത്തിൽ നിങ്ങൾ കണ്ടെത്തുന്നത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് ഈ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വലുപ്പം വർദ്ധിക്കുന്നു അതിനാൽ ക്രാക്കിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും വർദ്ധിക്കുന്നു അതിനാൽ നമ്മൾ റെസിസ്റ്റൻസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൊട്ടുന്ന സോളിഡുകളുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ നോക്കണം പൊട്ടുന്ന സോളിഡുകൾക്ക് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഇല്ല റെസിസ്റ്റൻസ് സ്ഥിരമായി നിലനിൽക്കുന്നു അത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ആയി കണക്കാക്കാം അതേസമയം മെറ്റീരിയൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ ആശയപരമായ മാതൃക ആയി റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നു പ്ലെയ്ൻ സ്ട്രെയ്നിന്റെ കാര്യത്തിൽ അത് ആഴം കുറഞ്ഞതാണ് പ്ലെയ്ൻ സ്ട്രെസ്സിന്റെ കാര്യത്തിൽ ഇത് ഇതുപോലുള്ള വളരെ കുത്തനെയുള്ളതാണ് ഇത് പോലെ വളരെ കുത്തനെയുള്ളതാണ് ഫ്രാക്ച്ചർ ടഫ്നെസ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് പറയുന്നത് നിർവചനം അനുസരിച്ച് ഫ്രാക്ച്ചർ ടഫ്നെസ്സ് ഇത് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ് നിങ്ങൾ പ്ലെയിൻ സ്ട്രെയിൻ കേസ് നോക്കുകയാണെങ്കിൽ അത് മെറ്റീരിയൽ പ്രോപ്പർട്ടി ആയി മാറുന്നു ഫ്രാക്ച്ചർ ടഫ്നെസ്സിനെക്കാൾ വലിയ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പരാജയം ഉണ്ടാകും ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിൽ വസ്തുവിന്റെ തിക്നെസ്സ് അനുസരിച്ചു ഫ്രാക്ചർ ടഫ്നെസിന്റെ വ്യതിയാനവും നമ്മൾ കാണും അതിനാൽ വ്യത്യസ്ത തിക്നെസ്സ് നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ പ്ലെയിൻ സ്ട്രെസ് കേസ് നോക്കുമ്പോൾ ഫ്രാക്ച്ചർ ടഫ്നെസിന്റെ മൂല്യം എന്താണ് ഫ്രാക്ച്ചർ ടഫ്നെസ്സ് എന്ന് പറയുമ്പോൾ അത് ഒരു മെറ്റീരിയൽ പേപ്പർട്ടി ആണ് നിങ്ങൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ മെറ്റീരിയൽ എങ്ങനെ പ്രവർത്തിക്കുന്നു ഫ്രാക്ചർ മെക്കാനിക്സിൽ നിങ്ങൾ കണ്ടുവരുന്ന വിവിധ കാര്യങ്ങൾ വിശദമായി വിവരിക്കുന്നതിന് മനോഹരമായി വികസിപ്പിച്ചെടുത്ത ഒരു ആശയമാണ് ആർ കർവ് അതിൽ സ്ഥിരതയുള്ള ഫ്രാക്ച്ചർ ഉണ്ട് തുടർന്ന് അസ്ഥിരമായ ഫ്രാക്ച്ചർ ഉണ്ട് ഇന്റർമീഡിയറ്റ് പ്ലേറ്റുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ പോപ്പ് ഇൻ സ്വഭാവമുണ്ട് അതിനാൽ മെറ്റീരിയൽ നൽകുന്ന റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന R വ്യത്യസ്തമാണ് ഫ്രാക്ച്ചർ ടഫ്നെസ്സ് എന്ന് നിങ്ങൾ പറയുമ്പോൾ യീൽഡ് സ്ട്രെങ്ത് പോലുള്ള ഒരു മെറ്റീരിയൽ പേപ്പർട്ടി ആയി നിങ്ങൾ അത് തിരിച്ചറിയും യീൽഡ് സ്ട്രെങ്ത് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചില ധാരണയുണ്ട് അത് എങ്ങനെ മനസിലാക്കാം അതുപോലെ തന്നെ ഫ്രാക്ചർ ടഫ്നെസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആയി കാണുന്നു റെസിസ്റ്റൻസ് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ് പക്ഷെ അത് കുറച്ചുകൂടി വിശദമാണ് കാരണം നിങ്ങൾക്ക് ഒരു Rകർവ് ഉണ്ട്ക്രാക്ക് ദൈർഘ്യത്തിന്റെ ഫങ്ഷൻ ആയ കർവ് നിങ്ങൾക്ക് അത്തരം വിവരങ്ങൾ ഇല്ല ക്രാക്കിന്റെ ദൈർഘ്യവുമായി ബന്ധമില്ലാത്ത എന്നാൽ തിക്നെസുമായി ബന്ധം ഉള്ള ഫ്രാക്ച്ചർ ടഫ്നെസ്സ് നിങ്ങൾക്ക് ഉണ്ട് അതിനാൽ നമ്മൾ നോക്കേണ്ട രീതിയാണിത് സർ ജോമെട്രിക്കൽ ഡിസ്കണ്ടിന്യുറ്റി ഉള്ള മേഖലയിലെ സ്ട്രെസ് ആയി നിങ്ങൾ സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടർ നിർവചിക്കുന്നു അതുപോലെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനെ സൈദ്ധാന്തികമായി എങ്ങനെ നിർവചിക്കാം നിങ്ങളുടെ ചോദ്യവും ശരിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്ട്രെസ് റെയ്സറായി നിങ്ങൾ സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടർ പരാമർശിച്ചതായി കാണുക അത് അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരു ജോമെട്രിക്കൽ ഡിസ്കണ്ടിന്യുറ്റി ഉണ്ടാകുമ്പോൾ അത് ഒരു സ്ട്രെസ് റെയ്സർ പോലെ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് ഒരു ജോമെട്രിക്കൽ ഡിസ്കണ്ടിന്യുറ്റി ഉണ്ടാകുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു എലിപ്റ്റിക്കൽ ദ്വാരമുള്ള അനന്തമായ പ്ലേറ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു കട്ട് ഔട്ട് ഉണ്ട് അതിനാൽ ഇത് ഒരു ജോമെട്രിക്കൽ ഡിസ്കണ്ടിന്യുറ്റി ആണ് ഇക്കാരണത്താൽ ഈ എലിപ്സിന്റെ അഗ്രങ്ങളിൽ നിങ്ങൾക്ക് പരമാവധി സ്ട്രെസ് ഉണ്ടാകും സിഗ്മ വൈ മാക്സ് ഈക്വൽ റ്റു സിഗ്മ ഇന്റു വൺ പ്ലസ് 2 എ ബൈ ബി ഉണ്ട് ഇവിടെ a എലിപ്സിന്റെ സെമി മേജർ ആക്സിസും ബി എലിപ്സിന്റെ സെമി മൈനർ ആക്സിസും ആണ് നിങ്ങൾ എന്താണ് നോക്കേണ്ടത് പ്രാരംഭ ഘട്ടത്തിൽ സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടർ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്നത് നോക്കേണ്ടതുണ്ട് ഗണിതശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും തമ്മിൽ ധാരാളം ചർച്ചകൾ നടന്നിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം ഒരു ചെറിയ ദ്വാരമുള്ള അനന്തമായ പ്ലേറ്റ് അനന്തമായ പ്ലേറ്റിന് തുല്യമാണെന്ന് ഗണിതശാസ്ത്രജ്ഞർ പറഞ്ഞു ഒരു കട്ട് ഔട്ട് കാരണം ഇത് സ്ട്രെസ് ഫീൽഡിൽ ചില മാറ്റങ്ങൾ വരുത്തുമെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല അതാണ് പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ രണ്ട് സ്ട്രെസ് ലെവലുകൾ വർദ്ധിപ്പിക്കും വൃത്താകൃതിയിലുള്ള ഹോൾ ഉള്ള ഒരു പ്ലേറ്റിനുള്ള കിർഷ് എലിപ്റ്റിക്കൽ ഹോളിന്റെ കാര്യത്തിൽ ഇംഗ്ലിസ് എന്നിവർ നൽകിയ തിരിച്ചറിവാണ് ഇത് നിങ്ങൾ മനസിലാക്കേണ്ടത് എനിക്ക് ഒരു കട്ട് ഔട്ട് ഇല്ലെന്ന് കരുതുക എനിക്ക് ഒരു യൂണി ആക്സിയൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എനിക്ക് ഇപ്പോഴും എല്ലാ പ്രദേശങ്ങളിലും യൂണിആക്സിയൽ സ്ട്രെസ് ഫീൽഡ് മാത്രമേ ഉണ്ടാകൂ ഞാൻ ഒരു കട്ട് ഔട്ട് കൊണ്ടുവരുന്ന നിമിഷം സ്ട്രെസ് ഫീൽഡ് മാറുന്നു ഇത് ബയാക്സിയലിലേക്ക് മാറുന്നു ഇത് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം രണ്ടാമത്തെ പ്രശ്നം നിങ്ങൾക്ക് സ്ട്രെസിന്റെ ഉയർന്ന മൂല്യമുണ്ട് അതും ശ്രദ്ധിക്കണം അതിനാൽ ആളുകൾക്ക് എന്തെങ്കിലും ജോമെട്രിക്കൽ ഡിസ്കണ്ടിന്യുറ്റി ഉണ്ടായാൽ അത് നിങ്ങളുടെ ഡിസൈൻ സമീപനത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഇത് അപകടകരമാണ് എന്ന് നിങ്ങൾ കണക്കിലെടുക്കണം നിങ്ങൾ അത് എങ്ങനെ കണക്കിലെടുക്കും സ്ട്രെസ് ലെവലുകൾ വളരെ ഉയർന്നതാണെന്ന് പറയുന്ന ഒരു രീതി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഡിസൈൻ കണക്കുകൂട്ടലിൽ നിങ്ങൾ അത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് ആ കാഴ്ചപ്പാടിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ അവതരിപ്പിച്ചു പല പ്രശ്നങ്ങൾക്കും ഇലാസ്തികത സിദ്ധാന്തത്തിൽ നിന്ന് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിന്റെ നിർവചനം പരിശോധിക്കുകയാണെങ്കിൽ അത് പരമാവധി സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാർ ഫീൽഡ് സ്ട്രെസ് ആണ് എന്ന് നിങ്ങൾക്കറിയാം ഫൈനൈറ്റ് സ്ട്രക്ചേർസിന് അത് മൂന്നിൽ കൂടുതലായിരിക്കും ഇത് ഒൻപതോ അതിൽ കൂടുതലോ ഉള്ള ഒരു മൂല്യം എത്തും എന്നാൽ അതിനപ്പുറം അത് വർദ്ധിക്കുകയില്ല സാധാരണ ഡിസൈൻ പ്രശ്നങ്ങൾക്ക് ആളുകൾ എങ്ങനെയാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ നോക്കിയത് മറുവശത്ത് നിങ്ങൾ ഒരു എലിപ്റ്റിക്കൽ ദ്വാരത്തിന്റെ കാര്യം നോക്കുമ്പോൾ ഇംഗ്ലിസ് മുന്നറിയിപ്പ് നൽകി b 0 ആകുമ്പോൾ സ്ട്രേസ്സസ് അനന്തതയിലേക്ക് പോകുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാം ചോദ്യം ശരിക്കും വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഫ്രാക്ചർ മെക്കാനിക്സിൽ പോലും സിഗ്മ വൈ അനന്തതയിലേക്ക് പോകുന്നുവെന്ന് നമ്മൾ പറയുന്നു എന്താണ് ഇത്ര പ്രത്യേകത അവിടെ നിങ്ങൾ അതിനെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എന്ന് വിളിക്കുന്നു സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടർ സാധുതയില്ലാത്തതിനാൽ നിങ്ങൾ ഇതിനെ ഇവിടെ വിളിക്കുന്നു നിങ്ങൾക്കറിയാമെങ്കിൽ ബി 0 ആകുമ്പോൾ സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടർ നിർവചനം പരാജയപ്പെടുന്നു അതിനാൽ ഒരു ക്രാക്കിന്റെ സാന്നിധ്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാൻ നിങ്ങൾക്ക് മറ്റൊരു തരം പാരാമീറ്റർ ആവശ്യമാണ് ഇംഗ്ലിസ് സൊല്യൂഷന്റെ ഫലം എന്തായിരുന്നു വളരെ ചെറിയ ഒരു ക്രാക്ക് പോലും വളരെ ചെറിയ ലോഡിന് പോലും സ്ട്രേസ്സസ് അനന്തമായിരിക്കും എന്ന് ഇംഗ്ലിസ് പറഞ്ഞു ഫ്രാക്ച്ചർ സംഭവിക്കും ഗ്രിഫിത്ത് വിശകലനം ശ്രദ്ധിച്ചതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമാണ് നിങ്ങൾക്ക് പരിമിതമായ നീളമുള്ള ക്രാക്ക് ആവശ്യമാണ് അത് ഒരു നിശ്ചിത സ്ട്രെസ് പ്രയോഗിക്കുന്നതിന് നിർണ്ണായക മൂല്യമായിരിക്കണം ആ ലെങ്ത് അതിനുശേഷം മാത്രമാണ് ക്രാക്ക് പ്രചരണം നടക്കുന്നത് അതിനാൽ നിങ്ങൾക്കുള്ളത് ക്രാക്ക് പ്രശ്നങ്ങളുടെ കാര്യത്തിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിന്റെ നിങ്ങളുടെ പരമ്പരാഗത പ്രാതിനിധ്യം പര്യാപ്തമല്ല നിങ്ങൾ ഒരു സൈസ് ഫാക്ടർ കൊണ്ടുവരണം ക്രാക്കിന്റെ നീളം ഇവിടെ സൈസ് ഫാക്ടർ ആണ് അതിനാൽ നിങ്ങൾക്ക് സിഗ്മ റൂട്ട് എ ഒരു പാരാമീറ്റർ ബണ്ടിൽ ആണ് ഇതിനെ നിങ്ങൾ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എന്ന് വിളിക്കുന്നു ഇത് ഇംഗ്ലിസ് സൊല്യൂഷൻ സൃഷ്ടിച്ച അപാകതയെ ഇല്ലാതാക്കുന്നു ഇത് ക്രാക്കിന്റെ നീളം കൊണ്ടുവന്നു എന്നത് വളരെ പ്രധാനമാണ് അതിനാൽ നിങ്ങൾ ഒരു നിർണ്ണായക ക്രാക്ക് നീളവും ക്രിട്ടിക്കൽ സ്ട്രെസും നോക്കേണ്ടതുണ്ട് അതിനാൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഘടകവും സ്ട്രെസ് ഇന്റൻസിറ്റി ഘടകവും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം ഇതാണ് ഒരു ഗണിതശാസ്ത്ര നിർവചനവും നമ്മൾ കണ്ടു അതിനാൽ നമ്മൾ ഗണിതശാസ്ത്ര നിർവചനം രണ്ട് വ്യത്യസ്ത വഴികളിലൂടെ പരിശോധിച്ചു സ്ട്രെസ് ഫംഗ്ഷനുമായി നമ്മൾ ഇത് ബന്ധപ്പെടുത്തി എന്നതാണ് ഒരു വഴി വാസ്തവത്തിൽ നമ്മൾ അടുത്ത അധ്യായത്തിൽ ഒരു സ്ട്രെസ് ഫംഗ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ഇന്റൻസിറ്റി ഘടകം എങ്ങനെ കണ്ടെത്താം എന്ന് ചർച്ച ചെയ്യും നിങ്ങൾക്ക് ഒരു ഗണിത നിർവചനം ഉണ്ട് ലിമിറ്റ് z നോട്ട് റ്റെൻഡ്സ് ടു 0 റൂട്ട് ഓഫ് 2 പൈ z നോട്ട് ഇന്റു സ്ട്രെസ് ഫങ്ഷൻ Z ഇൻ ടെംസ് ഓഫ് z നോട്ട് നിങ്ങൾ ഒരു പ്രശ്നം പരിഹരിക്കുകയും പ്രശ്നത്തിന്റെ പാരാമീറ്ററുകൾ അനുസരിച്ച് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിന്റെ നിർവചനം എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ നിങ്ങൾ മനസിലാക്കും സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ശരിക്കും ഒരു ക്രാക്കിന്റെ പങ്ക് കൊണ്ടുവരുന്നു അത് ഘടനയെ എങ്ങനെ ബാധിക്കുന്നു സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടറും സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾക്ക് ആദ്യം ശ്രദ്ധിക്കാവുന്ന ഒന്നാണ് ഇതിന് എംപിഎ റൂട്ട് മീറ്ററിന്റെ വളരെ രസകരമായ യൂണിറ്റുകളുണ്ട് അതേസമയം സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടറിന് അത്തരം യൂണിറ്റുകളൊന്നുമില്ല ഇത് ഒരു നമ്പർ മാത്രമാണ് മറ്റൊന്ന് നമ്മൾ നോക്കിയത് ക്രാക്ക് ടിപ്പ് പരിസരത്തിനടുത്തുള്ള സ്ട്രെസിന്റെ ശക്തിയും സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനാൽ നിർണ്ണയിക്കപ്പെടുന്നു അതിനാൽ ആ കാഴ്ചപ്പാടിൽ ഇതുപോലുള്ള ഓരോ മോഡുകൾക്കും നിങ്ങൾക്ക് സ്ട്രെസ് ഇന്റൻസിറ്റി ഘടകം നിർവചിക്കാം സിഗ്മ yy അറ്റ് തീറ്റ ഈക്വൽ റ്റു സീറോ ഇന്റു റൂട്ട് ഓഫ് 2 പൈ r എന്ന സ്ട്രെസ് ഘടകത്തെ എടുത്തു r ന്റെ പരിധി പൂജ്യമായി കണക്കാക്കുക നിങ്ങൾക്ക് ഒരു ഗണിത നിർവചനം ഉണ്ട് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എങ്ങനെ നേടാം K I സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ കെ II എങ്ങനെ ലഭിക്കും ഇവിടെ നിങ്ങൾ ഷിയർ സ്ട്രെസ് ടോ XY പങ്ക് എടുക്കുക സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ കെ III ന് നിങ്ങൾ ആന്റി പ്ലെയിൻ ഷിയർ സ്ട്രെസ് ടോ വൈ z നോക്കുന്നു ഇത് സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടറും സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറും തമ്മിലുള്ള അവശ്യ വ്യത്യാസം എന്താണെന്ന് വെളിപ്പെടുത്തുന്നു സർ നിങ്ങൾ ഫോട്ടോ ഇലാസ്റ്റിക് ഫ്രിഞ്ചുകൾ കാണിക്കുമ്പോൾ ക്രാക്ക് ടിപ്പിന് അടുത്തുള്ള ഫ്രിഞ്ചെസ് മുന്നോട്ട് ചരിഞ്ഞതല്ല പക്ഷേ ക്രാക്ക് ടിപ്പിൽ നിന്ന് അകലെ ഫോർവേർഡ് ചരിഞ്ഞുപോകുന്നു ഈ ഫോർവേർഡ് ടിൽറ്റിംഗ് ക്രാക്ക് മുന്നേറുന്ന ദിശയെ സൂചിപ്പിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ക്രാക്ക് ടിപ്പിന് അടുത്തുള്ള ഫ്രിഞ്ചെസ് ഫോർവേർഡ് ചരിയാത്തത് ഇത് നല്ല ചോദ്യമാണ് നിങ്ങൾക്ക് പ്രാഥമികമായി ഇത്തരത്തിലുള്ള ഒരു സംശയം ലഭിക്കുന്നു കാരണം പകുതി ക്ലാസ് എക്സ്പെരിമെന്റൽ സ്ട്രെസ് അനാലിസിസിനു വിധേയമാണെന്നും പകുതി ക്ലാസ് എക്സ്പെരിമെന്റൽ സ്ട്രെസ് അനാലിസിസിനു വിധേയമല്ലെന്നും ഞാൻ കണ്ടെത്തി അതിനാൽ നിങ്ങളുടെ ധാരണയെ സഹായിക്കുന്ന ഫോട്ടോഇലാസ്റ്റിറ്റിയിലെ ചില അടിസ്ഥാനകാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും അതിനാൽ നമ്മൾ അത് പരിശോധിക്കും ഒപ്പം ഫ്രിഞ്ച് പാറ്റേണിനെക്കുറിച്ച് നിങ്ങൾ ഉന്നയിച്ച നിർദ്ദിഷ്ട ചോദ്യവും ഒന്നാമതായി ഫ്രാക്ചർ മെക്കാനിക്സിൽ ഫോട്ടോഇലാസ്റ്റിറ്റി എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് നോക്കാം ഫോട്ടോഇലാസ്റ്റിറ്റി സാങ്കേതികത ഉപയോഗിച്ച് സ്ഥാപിതമായ ഒരു സാഹചര്യത്തിന് നമ്മൾ നേടുന്ന സ്ട്രെസ് ഫീൽഡ് അനുയോജ്യമാണോ എന്ന് ഞാൻ എല്ലായ്പ്പോഴും പരാമർശിക്കുന്നു അപ്പോൾ ചോദ്യം വരുന്നു എങ്ങനെ അതിനാൽ ഫോട്ടോഇലാസ്റ്റിറ്റിക് ഫ്രിഞ്ചെസ് യഥാർത്ഥത്തിൽ എന്താണ് പ്രതിനിധീകരിക്കുന്നതെന്ന് നമ്മൾ അറിയണം ഫോട്ടോഇലാസ്റ്റിറ്റിയിൽ ഒന്ന് നിരന്തരമായ പ്രിൻസിപ്പൽ സ്ട്രെസ് വ്യത്യാസത്തിന്റെ രൂപരേഖ നിരീക്ഷിക്കുന്നു അവ ഫ്രിഞ്ചെസ് എന്ന് ലേബൽ ചെയ്യപ്പെടുന്നു ഇവയെ ഐസോക്രോമാറ്റിക്സ് എന്ന് വിളിക്കുന്നു അവ എങ്ങനെ ഗണിതശാസ്ത്രപരമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ ഡിവൈഡഡ്ബൈ 4 പ്ലസ് ടോ XY ഹോൾ സ്ക്വയർ ആണ് മാക്സിമം ഷിയർ സ്ട്രെസ് ഞാൻ ഒരു പ്രശ്നം അനാലിറ്റിക് ആയി പരിഹരിച്ചതായി കരുതുക അപ്പോൾ ഞാൻ സിഗ്മ എക്സ് സിഗ്മ വൈ ടോ എക്സ് വൈ എന്നിവയ്ക്കായി എക്സ്പ്രഷൻ നേടുകയും ചെയ്യും അതിനാൽ ആ പരിഹാരത്തിൽ നിന്ന് നിങ്ങൾക്ക് പരമാവധി ഷിയർ സ്ട്രെസ് കണക്കാക്കാൻ കഴിയും നിങ്ങൾക്ക് ഇത് കോൺടൂറുകളായി പ്ലോട്ട് ചെയ്യാനും കഴിയും നിങ്ങൾ അവയെ കോൺടൂറുകളായി പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് പരീക്ഷണവുമായി താരതമ്യം ചെയ്യാനും നിങ്ങളുടെ വിശകലന സമവാക്യങ്ങൾ ശരിയാണോ എന്ന് കാണാനും കഴിയും അതിനാൽ അത്തരം ഒരു സമീപനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫോട്ടോഇലാസ്റ്റിറ്റി എന്താണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് നോക്കാം ഒരു നാല് പോയിന്റ് ബെൻഡിങ് ബീമിലെ വളരെ ലളിതമായ ഒരു പ്രശ്നം ഞാൻ ഏറ്റെടുത്തു നിങ്ങളുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ സമീപനത്തിൽ നിന്ന് ഈ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം ലോഡിംഗ് പോയിന്റുകളിൽ നിന്ന് മാറിയുള്ള പ്രദേശത്തെ ഒരു ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ ആയി നിങ്ങൾക്ക് സ്ട്രെസ് ഫീൽഡ് അറിയാം സ്ട്രേസ്സസ് രേഖീയമായി വ്യത്യാസപ്പെടുന്നു

കോണ്ടൂർ സിഗ്മ1 മൈനസ് സിഗ്മ 2 ന്റെ സ്വഭാവം എന്തായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾക്കായി ഫോട്ടോ ഇലാസ്റ്റിറ്റി അവതരിപ്പിച്ചത് സിഗ്മ 1 മൈനസ് സിഗ്മ 2 ന്റെ കോൺടൂർ തിരശ്ചീന രേഖകളായി സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു അനലറ്റിക്കൽ കണക്കുകൂട്ടലിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇത് ചെയ്തത് ഫീൽഡ് അറിയാം സൊല്യൂഷൻ നിങ്ങൾക്കറിയാം അതിനാൽ കോൺടൂറുകൾ എങ്ങനെയിരിക്കുമെന്ന് സ്ഥാപിക്കുന്നത് നിങ്ങൾക്ക് ലളിതമാണ് പിന്നെ നമ്മൾ എന്താണ് ചെയ്തത് സമാന പ്രശ്നത്തിനായി ലഭിച്ച ഫ്രിഞ്ച് പാറ്റേണുകൾ നമ്മൾ നേരിട്ട് നോക്കി അവ എങ്ങനെ കാണപ്പെടും അവ തിരശ്ചീനമാണ് അതിനാൽ ഫോട്ടോഇലാസ്റ്റിറ്റിയിൽ എനിക്ക് ലഭിക്കുന്ന കോൺടൂറുകൾ സിഗ്മ 1 മൈനസ് സിഗ്മ 2 ന്റെ കോൺടൂറുകൾ ആണെന്ന് നമ്മൾ നിഗമനം ചെയ്തു ഞാൻ എന്തുചെയ്യും ഞാൻ ഒരു പടി കൂടി കടന്ന് ഈ വിവരങ്ങളും നൽകും ഫോട്ടോഇലാസ്റ്റിറ്റിയുടെ കാര്യത്തിൽ പ്രകാശം ഒരു സെൻസറായി ഉപയോഗിക്കുന്നു വിഷ്വലൈസേഷനായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണം ഒരു പോളാരിസ്കോപ്പാണ് വാസ്തവത്തിൽ ഫോട്ടോഇലാസ്റ്റിറ്റി രണ്ട് അടിസ്ഥാന വിവരങ്ങൾ നൽകുന്നു ഇത് സിഗ്മ 1 മൈനസ് സിഗ്മ 2 ന്റെ കോൺടൂർ നൽകുന്നുഅതുപോലെ പ്രിൻസിപ്പൽ സ്ട്രെസ് ഡിറക്ഷനും ഈ കോഴ്സിൽ നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടതില്ലാത്തതിനാൽ ഞാൻ ഇത് നേരത്തെ ഊന്നിപ്പറഞ്ഞില്ല എന്നാൽ ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഹ്രസ്വമായി നോക്കാം എന്താണ് ഫിസിക്കൽ തത്വം ഈ സാങ്കേതിക വിദ്യകളെല്ലാം നിയന്ത്രിക്കുന്നത് ഒരു അടിസ്ഥാന ഫിസിക്കൽ തത്വമാണ് നിങ്ങൾ കണ്ടെത്തുന്നത് ചില നോൺ ക്രിസ്റ്റലൈൻ സുതാര്യ വസ്തുക്കൾ പ്രത്യേകിച്ച് ചില പ്ലാസ്റ്റിക്കുകൾ സാധാരണ അവസ്ഥയിൽ ഒപ്റ്റിക്കലായി ഐസോട്രോപിക് ആണ് എന്നാൽ സ്ട്രെസ് ചെയ്താൽ ഡബിൾ റിഫ്രാക്റ്റീവ് അല്ലെങ്കിൽ ബൈർഫ്രിംഞ്ചെന്റ് ആയി മാറുന്നു ഇതാണ് അടിസ്ഥാന ഫിസിക്കൽ തത്വം സ്വഭാവമനുസരിച്ച് ഒരു ക്രിസ്റ്റൽ ഇത് ഒരു ബൈർഫ്രിംഞ്ചെന്റ് മെറ്റീരിയലാണ് എന്നാൽ ഇവിടെ ബൈർഫ്രിംഞ്ചെന്റ് ഇഫക്റ്റ് താൽക്കാലികമാണ് ലോഡുകൾ ഉള്ളിടത്തോളം കാലം അത് ഡബിൾ റിഫ്രാക്റ്റീവ് ആയി പ്രവർത്തിക്കും ലോഡുകൾ നീക്കംചെയ്യുമ്പോൾ അത് ഒപ്റ്റിക്കലായി ഐസോട്രോപിക് ആയി പ്രവർത്തിക്കും അതിനാൽ കൊടുത്ത ലോഡുകൾ എന്തായാലും ഇത് ശരിക്കും ഒരു ബൈർഫ്രിംഞ്ചെന്റ് രീതിയിൽ പെരുമാറാൻ കാരണമാകുന്നു അതിനാൽ ബൈർഫ്രിംഞ്ചെന്റ് ഇഫക്റ്റ് നോക്കുന്നതിലൂടെ നമുക്ക് സ്ട്രേസ്സസ് കണക്കാക്കാം ഫോട്ടോഇലാസ്റ്റിറ്റി എന്താണെന്നതിന്റെ അടിസ്ഥാനം അതാണ് ഉപകരണങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു എനിക്ക് ഇതുപോലുള്ള ഒരു ഉപകരണം ഉണ്ട് എനിക്ക് കുറച്ച് ഒപ്റ്റിക്സ് ഉണ്ട് നമ്മൾ അതിലേക്ക് കടക്കില്ല എനിക്ക് ഡയമെട്രിക് കംപ്രഷന് കീഴിൽ ഒരു ഡിസ്ക് ഉണ്ട് ഒപ്പം ഞാൻ ഈ ഘടകങ്ങൾ തിരിക്കുമ്പോൾ ഒരു നിശ്ചല കോൺടൂറും മറ്റൊന്ന് ചലിക്കുന്ന കോണ്ടൂറും ഞാൻ കാണും ഫോട്ടോ ഇലാസ്റ്റിറ്റി സിഗ്മ 1 മൈനസ് സിഗ്മ 2 ന്റെ കോൺടൂറും പ്രിൻസിപ്പൽ ഡിറക്ഷനും നൽകുന്നുവെന്ന് ഞാൻ പറഞ്ഞു ഒരു പ്ലെയിൻ പോളാരിസ്കോപ്പ് എന്ന ലളിതമായ ക്രമീകരണത്തിൽ നിങ്ങൾ ഐസോക്രോമാറ്റിക്സും ഐസോക്ലിനിക്കുകളും കാണും നിങ്ങൾക്കറിയാമോ ഞാൻ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സ്രോതസ്സ് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഫ്രിഞ്ച് പാറ്റേണുകൾ കറുപ്പും വെളുപ്പും ആയി കാണിക്കും കാരണം നമ്മുടെ എല്ലാ വിശകലനത്തിനും നമ്മൾ കറുപ്പും വെളുപ്പും മാത്രമേ പ്ലോട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ പ്രകാശ സ്രോതസ്സിനെ വൈറ്റ് ലൈറ്റ് സ്രോതസ്സായി മാറ്റുന്നുവെന്ന് കരുതുക നിങ്ങൾ ഈ കോൺടൂറുകൾ നിറമുള്ളതായി കാണുകയും കറുത്തതായി അവശേഷിക്കുന്ന ഒരു കൂട്ടം കോൺടൂറുകൾ കാണുകയും ചെയ്യും ഇതാണ് ഒരു ഐസോക്രോമാറ്റിക് എന്താണ് ഒരു ഐസോക്ലിനിക് എന്ന് വേഗത്തിൽ തിരിച്ചറിയാനുള്ള സാങ്കേതികത ഐസോക്ലിനിക്സ് നീക്കംചെയ്യാൻ സഹായിക്കുന്ന രണ്ട് അധിക ഒപ്റ്റിക്കൽ ഘടകങ്ങൾ കൂടി ഉള്ള മറ്റൊരു ഒപ്റ്റിക്കൽ ക്രമീകരണവും ഇവിടെയുണ്ട് നിങ്ങൾ ഐസോക്രോമാറ്റിക് മാത്രമേ കാണൂ പ്രസക്തമായ ഫ്രിഞ്ച് പാറ്റേൺ ലഭിക്കുന്നതിന് ഫ്രാക്ചർ മെക്കാനിക്സിൽ നമ്മൾ ഉപയോഗിച്ച ഒപ്റ്റിക്കൽ ക്രമീകരണമാണിത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്പെരിമെന്റൽ ഫ്രിഞ്ചെസ് തിക്നെസ്സ് വ്യത്യാസപ്പെടുന്നു നിങ്ങൾ ഇവിടെ കണ്ടാൽ തിക്നെസ്സ് ഇവിടെ വളരെ വിശാലമാണ് നിങ്ങൾ ഒരു കോണ്ടൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഒരു വരയായി മാത്രമേ ഉണ്ടാകൂ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഫ്രിഞ്ച് ഓർഡർ പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചെറിയ വ്യതിയാനം നൽകുകയും വിശകലനപരമായി അത് പ്ലോട്ട് ചെയ്യുകയും ചെയ്യും നിങ്ങൾക്ക് സ്വയമേവ ഒരു തിക്നെസ്സ് വ്യതിയാനം ലഭിക്കും നിങ്ങൾക്ക് അതിന്റെ ധാരാളം പേപ്പറുകൾ ലഭിക്കും നിങ്ങൾക്ക് റഫറൻസുകൾ നോക്കാം സിഗ്മ എക്സ് സിഗ്മ വൈ ടോ എക്സ് വൈ എന്നിവ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് വരക്കാം ഇനി നമുക്ക് വെസ്റ്റർഗാർഡിൽ നിന്നുള്ള സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം വെസ്റ്റർഗാർഡ് സൊല്യൂഷൻ ഇതുപോലെയായിരുന്നു ഞാൻ ഫ്രിഞ്ചെസ് വരച്ചപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് എങ്ങനെ ലഭിച്ചു എനിക്ക് x ആക്സിനെയും y ആക്സിനെയും അപേക്ഷിച്ച് സിമെട്രിക്കൽ ഫ്രിഞ്ച് പാറ്റേണുകൾ ലഭിച്ചു വാസ്തവത്തിൽ എന്റെ എക്സ്പെരിമെന്റൽ ഫ്രിഞ്ചെസ് ഇതുപോലെയാണെങ്കിൽ നമ്മൾ പരിഷ്കരിച്ച വെസ്റ്റർഗാർഡ് സമവാക്യങ്ങൾ ചർച്ച ചെയ്യില്ല എന്നിട്ട് ഇപ്പോൾ നമ്മൾ ജനറലൈസ്ഡ് വെസ്റ്റർഗാർഡ് സമവാക്യങ്ങൾ നോക്കുകയാണ് അവയെല്ലാം നമ്മൾ നോക്കില്ലായിരുന്നു മോഡ് II ന്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് കണ്ടത് മോഡ് II ന്റെ കാര്യത്തിൽ എനിക്ക് ഇതുപോലുള്ള ഒരു ഫ്രിഞ്ച് പാറ്റേൺ ഉണ്ട് അത് പരീക്ഷണാത്മകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വെസ്റ്റർഗാർഡിന്റെ സൊല്യൂഷൻ നോക്കുമ്പോൾ എനിക്ക് ഇത് ഉണ്ട് സിംഗുലാർ സ്ട്രെസ് ഫീൽഡ് തന്നെ ഒരു ഫ്രിഞ്ച് പാറ്റേൺ നൽകുന്നു അത് പരീക്ഷണത്തിൽ നിന്നുള്ളതിനോട് വളരെ സാമ്യമുള്ളതാണ് വാസ്തവത്തിൽ രണ്ടാമത്തെ ടേം ഇവിടെ 0 ആയിരുന്നു അതും ഞാൻ പരാമർശിച്ചു ജനറലൈസ്ഡ് വെസ്റ്റർഗാർഡ് സമവാക്യങ്ങളും വില്യമിന്റെ കോർണർ ഫംഗ്ഷനും വികസിപ്പിക്കുമ്പോൾ നമ്മൾ ഇത് കാണും നിങ്ങൾ മോഡ് I ലേക്ക് പോകുന്ന നിമിഷം എനിക്ക് ഇതുപോലുള്ള ഒരു ചെറിയ ക്രാക്ക് ഉണ്ടാകുമ്പോൾ എന്റെ ഫ്രിഞ്ചെസ് ചരിഞ്ഞു ഈ കേസിൽ അവ മുന്നോട്ട് ചായുന്നു ആ ചരിവ് എങ്ങനെയായിരുന്നു നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതുപോലുള്ള ചരിവ് ഉണ്ട് നിങ്ങൾ ക്രാക്ക് ടിപ്പിനോട് അടുക്കുമ്പോൾ അവ നേരെയാകുന്നു അതിനാൽ ഈ ചോദ്യം ഉന്നയിക്കുന്നതിലൂടെ നിങ്ങൾ ഈ പ്രതിഭാസം നിരീക്ഷിച്ചതായി ഞാൻ കരുതുന്നു നമുക്ക് എന്ത് രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയും എനിക്ക് നേരായ ഫ്രിഞ്ച് ഉണ്ടെന്നു കരുതുക പിന്നെ എനിക്ക് ഇപ്പോഴും ആ മേഖലയിൽ വെസ്റ്റർഗാർഡ് സൊല്യൂഷൻ ഉപയോഗിക്കാനും പരീക്ഷണ ഫലം പ്രോസസ്സ് ചെയ്യാനും കഴിയും എനിക്ക് ഒരു ചരിവ് ഉള്ളപ്പോൾ എനിക്ക് ഇർവിന്റെ പരിഷ്ക്കരണം ഉണ്ടായിരിക്കണം അതിനൊപ്പം മാത്രമേ എനിക്ക് ഡാറ്റയെ വ്യാഖ്യാനിക്കാൻ കഴിയൂ നിങ്ങൾ ശരിക്കും ഫ്രിഞ്ച് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നേരെയുള്ള മേഖല അത് വളരെ ചെറുതാണ് ആ മേഖലയിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു വശം കൂടി നമ്മൾ കണ്ടു ആർഡിസിബി യുടെ കാര്യത്തിൽ അതായത് റെക്ടങ്കുലർ ഡബിൾ കാന്റിലിവർ ബീം മാതൃകയിൽ എനിക്ക് പിന്നിലേക്ക് ചരിഞ്ഞ അരികുകളുണ്ട് ഇത് പിന്നോക്കമാണ് അത് ക്രാക്കിന് സമീപം നേരെ ആയി മാറുകയാണ് ഞാൻ എന്താണ് ഇവിടെ കണ്ടെത്തേണ്ടത് ഈ സാഹചര്യത്തിലും ഇർവിൻ അവതരിപ്പിച്ച ഒരു അധിക പദം മാത്രം ഉപയോഗിച്ച് എനിക്ക് എക്സ്പെരിമെന്റൽ ഡാറ്റയെ വ്യാഖ്യാനിക്കാൻ കഴിയും പ്രേഷറൈസ്ഡ് വെസ്സലിന്റെ പുറം അതിർത്തിയിൽ നിന്ന് പുറപ്പെടുന്ന ക്രാക്ക് പോലെയുള്ള ഒരു യഥാർത്ഥ അവസ്ഥയിലേക്ക് ഞാൻ പോകുന്നുവെന്ന് കരുതുക എനിക്ക് ഒരു ഫ്രണ്ടൽ ലൂപ്പ് ഉണ്ട് അതിനാൽ എനിക്ക് ക്രാക്ക് ആക്സിസിനൊപ്പം ഫ്രിഞ്ച് ഓർഡറിന്റെ വ്യത്യാസമുണ്ട് അത് ഒരു ബ്ലോ അപ് ആയി കാണിക്കുന്നു മറുവശത്ത് ആന്തരിക അതിർത്തിയിൽ നിന്ന് എനിക്ക് ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ ഈ ഫ്രിഞ്ച് പിന്നിലേക്ക് ചരിഞ്ഞതായി എനിക്ക് ഒരു സാഹചര്യമുണ്ട് ഈ ഫ്രിഞ്ചെസ് മുന്നോട്ട് ചരിഞ്ഞിരിക്കുന്നു അതിനാൽ എനിക്ക് പിന്നോക്കവും മുന്നോട്ടും ചരിഞ്ഞ ഫ്രിഞ്ചെസിന്റെ സംയോജനമുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് മൾട്ടി പാരാമീറ്റർ പരിഹാരത്തിനായി പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഒരു സ്ലൈഡിൽ കാണിച്ചത് പുറം അതിർത്തിയിൽ നിന്ന് പുറപ്പെടുന്ന ക്രാക്ക് എനിക്കുണ്ട് ആന്തരിക അതിർത്തിയിൽ നിന്ന് പുറപ്പെടുന്ന ക്രാക്ക് എനിക്കുണ്ട് ക്രാക്ക് ടിപ്പിനോട് ചേർന്നുള്ള ഫോർവേർഡ് ടിൽറ്റഡ് ഫ്രിഞ്ചെസ് മാത്രം പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ എനിക്ക് കെ യുടെ ചില മൂല്യം നേടാൻ കഴിയുമെങ്കിലും ഫ്രിഞ്ച് പാറ്റേണിന്റെ എല്ലാ വശങ്ങളും ഞാൻ മാതൃകയാക്കുമ്പോൾ മാത്രമേ ന്യായമായ കൃത്യമായ സൊല്യൂഷൻ സാധ്യമാകൂ അതിനാൽ വെസ്റ്റർഗാർഡ് ഉപയോഗിച്ച് ഇത് ചെയ്യാനാവില്ല ഇർവിന്റെ പരിഷ്ക്കരണവും മോഡൽ ചെയ്യാൻ എടുക്കില്ല അതിനാൽ അടുത്ത ക്ലാസിലോ മറ്റോ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന മൾട്ടി പാരാമീറ്റർ പരിഹാരത്തിനായി നിങ്ങൾ പോകണം അവരുടെ സൊല്യൂഷൻ തികച്ചും ഉപയോഗപ്രദമാകുമെന്ന് നമ്മൾ കാണും സർ നിങ്ങൾ വെസ്റ്റർഗാർഡ് സൊല്യൂഷൻ വിശദീകരിച്ചപ്പോൾ ഇത് ബാധകമാകുന്നത് ഒരു സ്ട്രെസിന്റെ ബൈആക്സിയൽ അവസ്ഥയ്ക്ക് മാത്രമാണ് അല്ലാതെ യൂണി ആക്സിയൽ ലോഡിംഗിന് അല്ല എന്ന് പറഞ്ഞു എന്നിരുന്നാലും യൂണി ആക്സിയൽ കേസിലും സ്ട്രെസ് ഫീൽഡിനെ പ്രതിനിധീകരിക്കാൻ ഇത് ഉപയോഗിക്കുന്നു അതിനാൽ ദയവായി ഇത് വീണ്ടും വിശദീകരിക്കാമോ ക്രാക്ക് മുന്നേറുമ്പോൾ തിരശ്ചീന ദിശയിലുള്ള സ്ട്രെസ് എന്തെങ്കിലും പങ്ക് വഹിക്കുമോ ഇത് ഒരു നല്ല ചോദ്യമാണ് നോക്കൂ വെസ്റ്റർഗാർഡ് സൊല്യൂഷനിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നോക്കാം ബൌണ്ടറി കണ്ടീഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ വ്യക്തമായി ഒരു ബൈ ആക്സിയൽ ലോഡിംഗ് സാഹചര്യം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷൻ ലഭിച്ചു ഈ രൂപത്തിൽ നിങ്ങൾ സ്ട്രെസ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ സിഗ്മ z ഡിവൈഡഡ് ബൈ റൂട്ട് z സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇത് കൃത്യമായ പരിഹാരമാണ് ആ അർത്ഥത്തിൽ ഫീൽഡിനായുള്ള ഒരു ക്ലോസ്ഡ് ഫോം എക്സ്പ്രഷനായി ഇതിനെ കണക്കാക്കാം ജനറലൈസ്ഡ് വെസ്റ്റർഗാർഡിലേക്ക് നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ ഇത് ഒരു ക്ലോസ്ഡ് ഫോം എക്സ്പ്രഷനായി നിങ്ങൾ സ്വീകരിക്കില്ല നമുക്ക് ഇവിടെ ലഭിച്ചത് എന്താണെന്ന് കാണുക ഈ രീതിയിൽ ഞാൻ സ്ട്രെസ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായും തൃപ്തിപ്പെടുത്തുന്നു ഇത് ക്രാക്കിന്റെ സ്ട്രെസ് ഫ്രീ അതിർത്തിയും അനന്തതയിലെ ബയാക്സിയൽ ലോഡിംഗും തൃപ്തിപ്പെടുത്തുന്നു ഈ സ്ട്രെസ് ഫംഗ്ഷൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നു എന്നാൽ ക്രാക്ക് ആക്സിസിൽ ടോ xy 0 ആണ് എന്നും ഇത് പറയുന്നു ഇത് മാറ്റി നിർത്തിയാൽ ഇത് ക്രാക്ക് ഫെയ്സിലെ കണ്ടീഷനും അനന്തതയിലെ ബയാക്സിയൽ ലോഡിംഗും തൃപ്തിപ്പെടുത്തുന്നു ഇലാസ്തികത സിദ്ധാന്തത്തിൽ കാണുക ക്ലോസ്ഡ് ഫോം എക്സ്പ്രഷനുകൾ നമ്മൾ പതിവായി കാണുന്നു ഫ്രാക്ചർ മെക്കാനിക്സ് വികസിപ്പിച്ച സമയമാണിത് ഇർവിൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്താണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ക്രാക്കിനെക്കുറിച്ച് വിഷമിക്കേണ്ട ക്രാക്ക് ടിപ്പിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി അദ്ദേഹം എല്ലാം ക്രാക്ക് ടിപ്പിലേക്ക് മാറ്റി നിങ്ങളുടെ ഉറവിടം ക്രാക്ക് ടിപ്പിലേക്ക് മാറ്റുന്ന നിമിഷം ഇതുപോലുള്ള ഒരു അന്തിമ പദപ്രയോഗം നിങ്ങൾക്ക് ലഭിക്കും ബാഹ്യ അതിർത്തിയും ക്രാക്ക് ഫ്രീ പ്രതലങ്ങളും തൃപ്തിപ്പെടുത്തുന്നതായി നിങ്ങൾ ഇത് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും ഒടുവിൽ നിങ്ങൾ അതിന്റെ ഉറവിടം ക്രാക്ക് ടിപ്പിലേക്ക് മാറ്റി ക്രാക്കിന്റെ ദൈർഘ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ z നോട്ട് വളരെ ചെറുതാണെന്ന് നിങ്ങൾ എടുത്തു ഒടുവിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങളിൽ എത്തി ഈ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ ഈ രംഗത്തെ എങ്ങനെ മാതൃകയാക്കുന്നു ഇതുപോലുള്ള ഒരു സ്ട്രെസ് ഫംഗ്ഷനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ r 0 ആകുമ്പോൾ സിഗ്മ x ഈക്വൽ റ്റു സിഗ്മ y ആകും അത് അനന്തതയിലെത്തും വാസ്തവത്തിൽ അത് അനന്തതയിലെത്തുകയില്ല പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കാരണം ഇവിടെ നിലനിൽക്കേണ്ട പ്ലാസ്റ്റിറ്റി അവസ്ഥ എന്തുതന്നെയായാലും അവയെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ചില മൂല്യങ്ങൾ ലഭിക്കും നിങ്ങൾ അനന്തതയിലേക്ക് പോകുമ്പോൾ എന്തുസംഭവിക്കും R എന്നത് അനന്തതയ്ക്ക് തുല്യമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് 0 ലേക്ക് പോകുന്നു ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഇത് കൃത്യമായ പരിഹാരമല്ല പ്രായോഗിക താൽപ്പര്യമുള്ള ഏത് പ്രശ്നത്തിനും പിന്നെ എന്തിനാണ് ഇത് വളരെ പ്രധാനമായിരിക്കുന്നത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതെന്താണെന്ന് കാണുക നമുക്ക് ലഭിച്ച സൊല്യൂഷൻ ഒരു സിംഗുലാർ സൊല്യൂഷൻ ആണ് ഇത് ക്രാക്ക് ടിപ്പിന് സമീപത്തായി സാധുവാണ് നമ്മൾ റിമോട്ട് ലോഡിംഗ് മാത്രമാണ് നോക്കുന്നത് ക്രാക്ക് മുഖങ്ങൾ തുറക്കുന്നിടത്തോളം റിമോട്ട് ലോഡിംഗിന് അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടും സമീപ പ്രദേശത്ത് എത്ര അടുത്താണ് അത് പ്രശ്നത്തെ ആശ്രയിച്ചിരിക്കുന്നു ആ ദൂരത്തിന്റെ മൂല്യം എന്താണെന്ന് നമ്മൾ നോക്കുന്നില്ല അത് പ്രശ്നത്തെ ആശ്രയിച്ചിരിക്കുന്നു സിംഗുലാരിറ്റി ആധിപത്യമുള്ള സോൺ സൈസ് ഓരോ പ്രോബ്ലെത്തിനും വ്യത്യാസപ്പെടുന്നുവെന്ന് ആളുകൾ കണ്ടെത്തി ആ മേഖലയിൽ ഈ സൊല്യൂഷൻ ന്യായമായും കൃത്യമാണ് അതിനാൽ അടുത്തുള്ള പ്രദേശത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ സിംഗുലാർ സൊല്യൂഷൻ ആയി യൂണി ആക്സിയലിനും ബയാക്സിയലിനും ആളുകൾ ഇത് മാറിമാറി ഉപയോഗിക്കുന്നു R അനന്തതയിലാകുമ്പോൾ എന്തുസംഭവിക്കുമെന്ന അടിസ്ഥാന ചോദ്യം നിങ്ങൾ ശരിക്കും ഉന്നയിക്കുകയാണെങ്കിൽ ഈ സൊല്യൂഷൻ പറയുന്നത് പൂജ്യം മാത്രമാണ് അതിനാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇതാണ് ഇത് ഒരു നിയർ ഫീൽഡ് സമവാക്യമാണ് ഇത് ക്ലോസ്ഡ് ഫോം എക്സ്പ്രഷനല്ല നിയർ ഫീൽഡ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഇത് ഒരു യൂണി ആക്സിയൽ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നതും ന്യായമാണ് പക്ഷേ ആളുകൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് ചില നിരീക്ഷണങ്ങൾ ശരിയല്ല മൈനസ് സിഗ്മ നോട്ട് എക്സ് എന്ന പദം ഇർവിൻ അവതരിപ്പിച്ചു ഗവേഷണങ്ങളിൽ നാം കണ്ടെത്തുന്നത് എന്താണ് സിഗ്മ നോട്ട് എക്സ് സിഗ്മയ്ക്ക് തുല്യമാകുമ്പോൾ ഇത് ഇൻഫിനിറ്റി ആകും ഇത് പൂജ്യത്തിലേക്ക് പോകുന്നു അതിനാൽ ഇത് യൂണി ആക്സിയൽ ലോഡിംഗ് സാഹചര്യത്തിന് ഉപയോഗിക്കാം ആ വ്യാഖ്യാനം കർശനമായി ശരിയല്ല കാരണം ഈ പരിഹാരത്തിൽ R ഈക്വൽ റ്റു ഇൻഫിനിറ്റി ആകുമ്പോൾ y ദിശയിൽ സ്ട്രെസ് ഇല്ല ഇർവിന്റെ പരിഷ്ക്കരണം നിങ്ങൾ കാണേണ്ട മാർഗ്ഗം ഇതാണ് എക്സ്പെരിമെന്റൽ ഫ്രിഞ്ച് പാറ്റേണിൽ നിന്നും തന്നിരിക്കുന്ന ഒരു പ്രശ്നത്തിന് സിഗ്മ നോട്ട് എക്സ് K I എന്നിവ കണ്ടെത്തുക നിങ്ങളുടെ എല്ലാ ഫ്രാക്ചർ മെക്കാനിക്സ് കണക്കുകൂട്ടലിനും എക്സ്പെരിമെന്റൽ ഫ്രിഞ്ച് പാറ്റേണിൽ നിന്ന് ലഭിക്കുന്ന രണ്ട് പാരാമീറ്ററുകളും ഉപയോഗിച്ച് ലഭിച്ച KI യുടെ മൂല്യം ഉപയോഗിക്കുക നിങ്ങൾക്കറിയാമോ ഇതുപോലുള്ള സാഹചര്യം പരിശോധിച്ചുകഴിഞ്ഞാൽ ഫൈനൈറ്റ് ബോഡി ജ്യാമിതിക്കായി നിങ്ങൾക്ക് സങ്കീർണ്ണമായ ഒരു ഫ്രിഞ്ച് പാറ്റേൺ ലഭിക്കും നമ്മൾ സിഗ്മ നോട്ട് x ൽ നിർത്തുകയില്ല നമ്മൾ ഒന്നിലധികം പാരാമീറ്ററുകളും നോക്കും എല്ലാ ഫൈനൈറ്റ് ബോഡികൾക്കും ഈ എല്ലാ പാരാമീറ്ററുകളും ഉൾക്കൊള്ളുന്ന സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും അതിനാൽ ആളുകൾ ചെയ്തത് പ്രാരംഭ സമയത്ത് ആളുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു അവർ യഥാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുകയായിരുന്നു അവർക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തുകയും അത് മുന്നോട്ട് കൊണ്ടുപോകുകയും വേണം അതിനാൽ നിങ്ങളുടെ ശ്രദ്ധ ക്രാക്ക് ടിപ്പിനോട് വളരെ അടുത്ത് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബൈഅക്സിയൽ ലോഡിംഗ് അല്ലെങ്കിൽ യൂണി ആക്സിയൽ ലോഡിംഗ് തമ്മിലുള്ള വ്യത്യാസം അത്ര ശക്തമല്ല ഒരു വ്യത്യാസം നിലവിലുണ്ടെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് പക്ഷേ നിങ്ങൾ ഒരു മൾട്ടി പാരാമീറ്റർ സൊല്യൂഷൻ എടുക്കുന്നില്ലെങ്കിൽ ഈ സൊല്യൂഷൻ ഒന്നും സാധുവല്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നതിന്റെ കാരണം ഉയർന്ന ഓർഡർ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ഫ്രാക്ച്ചർ സിദ്ധാന്തങ്ങളും ആളുകൾ പരിശോധിച്ചിട്ടുണ്ട് ആളുകൾ ടി സ്ട്രെസ് എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ പദം ഉപയോഗിച്ചു ഈ സ്ട്രെസ്സിന്റെ പങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം കാരണം അത് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ മറ്റൊരു ഭാഗമാണ് സിഗ്മ നോട്ട് എക്സ് സ്ട്രെസ് ടേമിന്റെ കൂട്ടിച്ചേർക്കൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ക്രാക്ക് ടിപ്പിൽ ഒരു പ്രത്യേക സിംഗുലാർ സ്ട്രെസും ഉണ്ടാക്കുന്നില്ല ഇതാണ് ആദ്യ നമ്പർ വൺ ആശയം നിരീക്ഷണ നമ്പർ രണ്ട് എന്താണ് ഇത് വസ്തുവിലെ സ്ട്രെസ് സ്റ്റേറ്റിനെ തീർച്ചയായും ബാധിച്ചു ഇത് എങ്ങനെ ചെയ്യും പ്രിൻസിപ്പൽ സ്ട്രെസിന്റെ വ്യാപ്തിയും ദിശയും നിങ്ങൾ കണക്കാക്കാൻ പോകുകയാണെങ്കിൽ അവ അധിക സ്ട്രെസിനാൽ സ്വാധീനിക്കപ്പെടുന്നു നിങ്ങൾക്ക് ഇത് അവഗണിക്കാൻ കഴിയില്ല ഈ കോഴ്സിന്റെ അവസാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏത് രീതിയിലാണ് ക്രാക്ക് പ്രചരിപ്പിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ ആണ് നിങ്ങൾ സിംഗുലാർ സൊല്യൂഷൻ മാത്രം നോക്കുകയാണെങ്കിൽ മോഡ് I ന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സെൽഫ് സിമിലർ ക്രാക്ക് പ്രൊപ്പഗേഷൻ കാണാം ക്രാക്ക് തിരശ്ചീനമായിരുന്നു അത് തിരശ്ചീന ദിശയിൽ വളരുന്നു മോഡ് I ന്റെ കാര്യത്തിലും ആളുകൾ ക്രാക്ക് തിരിയുന്നതായി കണ്ടെത്തി നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും നിങ്ങൾ ഹൈയർ ഓർഡർ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയില്ല അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സ് വികസനത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്രാക്ക് ടിപ്പിന് സമീപത്തായി മാത്രം ഒതുക്കുകയാണെങ്കിൽ സിഗ്മ എക്സ് എന്ന പദം ശരിക്കും ബാധിക്കില്ല കാരണം ക്രാക്കിന്റെ സമീപപ്രദേശങ്ങളിലെ ക്രാക്ക് ഓപ്പണിംഗ് സ്ട്രെസ് സിഗ്മ വൈഅതാണ് ആധിപത്യം പുലർത്തുക ക്രാക്ക്ഡ് ബോഡിയുടെ സ്വഭാവത്തിൽ അത് മാറ്റം വരുത്തില്ല അതിനാൽ ആ കാഴ്ചപ്പാടിൽ ഇത് ന്യായമാണ് ജനറലൈസ്ഡ് വെസ്റ്റർഗാർഡ് സമവാക്യം നോക്കിയ ശേഷം ഈ പരിഹാരങ്ങളൊന്നും കൃത്യമല്ലെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക പ്രായോഗിക താൽപ്പര്യമുള്ള ഏത് പ്രശ്നത്തിനും നിങ്ങൾ മൾട്ടി പാരാമീറ്റർ പരിഹാരത്തിനായി പോകേണ്ടതുണ്ട് സർ ഒരു ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റിനുള്ള വെസ്റ്റർഗാർഡ് പരിഹാരത്തെക്കുറിച്ച് ആണ് ചോദ്യം ഇത് u y ഈക്വൽ റ്റു 2 സിഗ്മ ബൈ E റൂട്ട് ഓവർ a സ്ക്വയർ മൈനസ് x സ്ക്വയർ ആണ് രണ്ട് യൂണി ആക്സിയൽ സ്ട്രെസിന്റെ സൂപ്പർപോസിഷൻ പരിഹരിക്കുന്നതിനായി ഇത് പ്രശ്നത്തിൽ ഉപയോഗിച്ചു ഇത് എങ്ങനെ ഉപയോഗിക്കാം നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ചോദ്യം ഇത് കൂടി സൂചിപ്പിക്കുന്നു യൂണി ആക്സിയൽ ലോഡിംഗ് സാഹചര്യത്തിലേക്ക് നിങ്ങൾ എന്തിനാണ് ഒരു ബൈഅക്സിയൽ ലോഡിംഗ് സാഹചര്യം ഉപയോഗിക്കുന്നത് ഞാൻ ഒന്ന് പിന്നോട്ട് പോകാം ഈ സിദ്ധാന്തങ്ങൾ വികസിപ്പിച്ച സമയത്ത് ആളുകൾ ഒരു ടെൻഷൻ സ്ട്രിപ്പിലെ ദ്വാരം ഒരു ടെൻഷൻ സ്ട്രിപ്പിലെ എലിപ്റ്റിക്കൽ ദ്വാരം എന്നിവയാണ് കൂടുതൽ ശ്രദ്ധിച്ചത് യൂണി ആക്സിയൽ ലോഡിംഗിനെ അടിസ്ഥാനമാക്കി ഗ്രിഫിത്തും തന്റെ ഫ്രാക്ച്ചർ സട്രെങ്ത് വികസിപ്പിച്ചു അതിനാൽ ആളുകൾ ഒരു ക്രാക്കിന്റെ സാന്നിധ്യത്തിൽ റിലീസ് ചെയ്യുന്ന എനർജി എങ്ങനെ കണ്ടെത്താമെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു അവർ ക്രാക്ക് പ്ലെയ്ൻ ഡിസ്പ്ലേസ്മെന്റ് നോക്കി അതിനാൽ അവർ ലഭ്യമായ ക്രാക്ക് പ്ലെയിൻ ഡിസ്പ്ലേസ്മെന്റ് എടുത്ത് ഈ പ്രോബ്ലെത്തിൽ ഉപയോഗിച്ചു തുടർന്ന് തൃപ്തികരമായ ഒരു ഉത്തരം കണ്ടെത്തി ഇപ്പോൾ ആ സംഭവവികാസങ്ങളും നിലവിലുള്ള സംഭവവികാസങ്ങളും പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ശരിക്കും നോക്കാൻ കഴിയുന്നത് ഞാൻ ഉപയോഗിച്ച റിസൾട്ട് എന്തായാലും എനിക്ക് ഈ ഡയഗ്രം ഒരു തിരശ്ചീന ലോഡിംഗിന്റേതായി മാറ്റിസ്ഥാപിക്കാൻ കഴിയും എന്നിട്ട് ഇത് പ്രയോഗിക്കുക സ്ഥിതി സമാനമാണ് ഇത് ഒരു യൂണി ആക്സിയൽ ലോഡിംഗ് അല്ലെങ്കിൽ ബയാക്സിയൽ ലോഡിംഗ് ആണെങ്കിലും നമ്മൾ ബയാക്സിയൽ ലോഡിംഗ് ഫലം ഉപയോഗിച്ചു ഒരു ബയാക്സിയൽ ലോഡിംഗ് ഫലത്തിന് മാത്രം ആണ് സിഗ്മ റൂട്ട് പൈ എ എന്ന കെ യുടെ നിർവചനം ഉള്ളതെന്ന് നമുക്കറിയാം ഇത് യൂണി ആക്സിയൽ കേസിൽ കർശനമായി ഉപയോഗിക്കില്ല അതിനാൽ ആ കാഴ്ചപ്പാടിൽ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിലവിൽ ലഭ്യമായ ഫ്രാക്ചർ മെക്കാനിക്സിനെക്കുറിച്ചുള്ള ഏതെങ്കിലും പുസ്തകം പരിശോധിക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം നിങ്ങൾ ശരിയായി ചൂണ്ടിക്കാണിച്ച ഈ വൈകല്യമുണ്ട് ക്രാക്ക് പ്ലെയിൻ ഡിസ്പ്ലേസ്മെന്റിനെ അടിസ്ഥാനമാക്കി അവർ എനർജി റിലീസ് റേറ്റ് നോക്കുമ്പോഴെല്ലാം ഞാൻ പറയും യൂണി ആക്സിയൽ ലോഡിംഗ് മാത്രമേ ചിത്രീകരിച്ചിട്ടുള്ളൂ സിഗ്മ എക്സ് സിഗ്മ വൈയെ ബാധിക്കാത്തതിനാൽ ഇത് ക്രാക്ക് ടിപ്പിന് സമീപത്തായി ഇത് ഉപയോഗിക്കാം നിങ്ങൾ ശരിക്കും വി ഡിസ്പ്ലേസ്മെൻറ് നോക്കുകയാണ് നിങ്ങൾ മറ്റ് ഡിസ്പ്ലേസ്മെൻറ് ഘടകത്തിലേക്ക് നോക്കുന്നില്ല അതിനാൽ ആളുകൾ ഇത് ഉപയോഗിച്ചു എന്നാൽ നമുക്ക് ലഭിച്ച ഫലം എന്തുതന്നെയായാലും G ഈക്വൽ റ്റു K സ്ക്വയർ ബൈ E ആണ് അതാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് ഒരൊറ്റ ക്രാക്ക് അല്പം നീട്ടിയതിനു ശേഷം അത് ക്ലോസ് ചെയ്യുമ്പോൾ കെ യും ജി യും തമ്മിലുള്ള പരസ്പരബന്ധം തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണിത് ഇത് ചരിത്രപരമായത് മാത്രമാണ് ഈ ക്രാക്ക് ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ഉപയോഗിച്ച് എനർജി റിലീസ് കണ്ടെത്തുന്നത് ചരിത്രപരമായ ഒന്നാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഹൊറിസോണ്ടൽ സ്ട്രെസ് ഘടകം ഇവിടെ ഇടാം ഫലം സാധുതയുള്ളതാണ് ജി യും കെ യും തമ്മിലുള്ള ആത്യന്തിക പരസ്പര ബന്ധം ഇപ്പോഴും അങ്ങനെ തന്നെ തുടരും അതിനാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് വികസനത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ആളുകൾ ക്രാക്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവർ യൂണി ആക്സിയൽ മാത്രം നോക്കുകയും ചെയ്തു എന്നതാണ് ശീലങ്ങൾ തുടർന്ന് പോന്നു അവർ ഇത് ഉപയോഗിക്കുകയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ അത് എടുക്കേണ്ടതെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഒരു ചോദ്യം അനുവദിക്കാമോ സർ എനർജി റിലീസ് റേറ്റ് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ തുടങ്ങിയ പാരാമീറ്ററുകൾ നേടുന്നതിനായി നമ്മൾ ഒരു ക്രാക്ക് മുഴുവൻ ക്രാക്ക് ആയി എടുത്തു എന്നാൽ പല എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളിലും ക്രാക്ക് എംബെഡഡ് അല്ലെങ്കിൽ സർഫസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്രാക്ക് ആയി നമ്മൾ കാണുന്നു എംബെഡഡ് ക്രാക്കുകൾക്കും ഈ ഡെറിവേഷനുകൾ ബാധകമാണോ നോക്കൂ ഇത് വളരെ നല്ലതും പ്രായോഗികവുമായ ചോദ്യമാണ് കാരണം മിക്ക എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷനുകളിലും ക്രാക്കുകൾ സർഫസിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ ക്രാക്കുകൾ എംബെഡ് ചെയ്തു ഇതാണ് നിങ്ങൾക്കുള്ള വഴി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ വിഷമകരമായ സാഹചര്യങ്ങളിൽ ഫ്രാക്ചർ മെക്കാനിക്സ് പ്രയോഗിക്കുക എന്നതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം നമ്മൾ എവിടെയെങ്കിലും ആരംഭിക്കണം ത്രൂ ക്രാക്കിന്റെ വിശകലനം കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാണ് അതിനാൽ നമ്മൾ ത്രൂ ക്രാക്കുകളുടെ മാർഗ്ഗങ്ങൾ വികസിപ്പിക്കുകയും അവ എംബെഡഡ് ക്രാക്കുകൾക്കും സർഫസ് ക്രാക്കുകൾക്കും ബാധകമാക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ അത് നോക്കേണ്ടതുണ്ട് ആശയങ്ങൾ ബാധകമാകുമെങ്കിലും യഥാർത്ഥ കണക്കുകൂട്ടലുകൾ വ്യത്യസ്തമായിരിക്കും മിക്ക കേസുകളിലും നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കുന്നതിന് ന്യൂമെറിക്കൽ സമീപനങ്ങളോ എക്സ്പെരിമെന്റൽ അനാലിസിസൊ ആശ്രയിക്കേണ്ടി വന്നേക്കാം കാരണം ആ ജ്യാമിതികൾ വളരെ സങ്കീർണ്ണമാകും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ന്യൂമെറിക്കൽ കോഡ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ മെഷർമെൻറ് ചെയ്യേണ്ടി വരും നമ്മൾ തീർച്ചയായും അതു നോക്കും ത്രൂ ക്രാക്ക് സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ അവസാനിപ്പിക്കില്ല കാരണം ഞാൻ പരാമർശിക്കുന്നുനിങ്ങളുടെ ബെൻഡിങ്ങിൽ പോലും നിങ്ങൾ കോൺസ്റ്റന്റ് മൊമെന്റിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നിട്ട് വേരിയബിൾ ബെൻഡിംഗ് മൊമെന്റ് കോൺസ്റ്റന്റ് ഷിയർ വേരിയബിൾ ഷിയർ എന്നിവയിലേക്ക് നമ്മൾ പോയി ഇലാസ്തികത സിദ്ധാന്തത്തിന്റെ ഫലമായി നമ്മൾ കണ്ട ചില ബുദ്ധിമുട്ടുകൾ ഇത് അവതരിപ്പിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അടിസ്ഥാനപരമായ കാതൽ മനസ്സിലാക്കുന്നു ബെൻഡിങ് സാഹചര്യത്തിൽ ബീമുകളുടെ ഡെപ്തിനു അനുസരിച്ച് സ്ട്രേസ്സസ് രേഖീയമായി വ്യത്യാസപ്പെടും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അതുപോലെ തന്നെ ഒരു ക്രാക്കിന്റെ കാര്യത്തിലും എന്തു സംഭവിക്കും എനിക്ക് ഒരു ത്രൂ ക്രാക്ക് ഉള്ളപ്പോൾ എനിക്ക് നേരായ ക്രാക്ക് ഫ്രണ്ട് ഉണ്ട് സ്ട്രേസ്സസ് സിംഗുലാർ ആകുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ക്രാക്ക് ഫ്രണ്ടിൽ സിംഗുലാരിറ്റി അതേപടി തുടരും സർഫസ് ക്രാക്ക് അല്ലെങ്കിൽ എംബെഡഡ് ക്രാക്ക് ഞാൻ എടുക്കുന്ന നിമിഷം എനിക്ക് ഒരു വളഞ്ഞ ക്രാക്ക് ഫ്രണ്ട് ഉണ്ട് അതിനാൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകം ക്രാക്ക് ഫ്രണ്ടിനൊപ്പം വ്യത്യാസപ്പെടും അതിനാൽ പ്രശ്നം കൂടുതൽ സങ്കീർണ്ണമാണ് അതിനാൽ വിഷയം വിശദമായി നോക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം ഈ കോഴ്സിന്റെ ഭാഗമായി നമ്മൾ തീർച്ചയായും അത്തരം പ്രശ്നങ്ങൾ നോക്കും ഫോർവേഡ് ടിൽറ്റിംഗ് ക്രാക്ക് മുന്നേറുന്ന ദിശയെ സൂചിപ്പിക്കുന്നുണ്ടോ നോക്കൂ ഉത്തരം ഇല്ല എന്നാണ് ഞാൻ രണ്ട് സാഹചര്യങ്ങൾ കാണിക്കും SEN മാതൃകയുടെ കാര്യത്തിൽ ഫ്രിഞ്ചെസ് മുന്നോട്ട് ചരിഞ്ഞതായി നിങ്ങൾ കാണുന്നു എനിക്ക് ഇതുപോലുള്ള ഒരു ക്രാക്ക് ആക്സിസ് ഉണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ക്രാക്ക് ക്രാക്കിന് മുന്നേറാൻ കഴിയുന്ന സ്ഥലമാണിത് നിങ്ങൾ ആർഡിസിബി മാതൃക നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട് ഒപ്പം ക്രാക്കിന് ഈ ദിശയിലേക്ക് പോകാൻ കഴിയും ഈ സാഹചര്യത്തിൽ ഫ്രിഞ്ചെസ് മുന്നോട്ട് ചരിഞ്ഞതാണ് ഈ സാഹചര്യത്തിൽ ഫ്രിഞ്ചെസ് പിന്നിലേക്ക് ചരിഞ്ഞതാണ് രണ്ട് സാഹചര്യങ്ങളിലും ക്രാക്ക് മുന്നോട്ടുള്ള ദിശയിലേക്ക് പോകും പിന്നീട് നമ്മൾ പോയി അത് കാണിക്കും ഇത് ട്രൈ ആക്സിയൽ പരിമിതിയെ സൂചിപ്പിക്കുന്നു ഇതിനു ക്രാക്ക് പ്രൊപോഗേഷൻ ദിശയുമായി ഒരു ബന്ധവുമില്ല ഇത് ട്രൈ ആക്സിയൽ നിയന്ത്രണത്തിലൂടെ നിർണ്ണയിക്കപ്പെടുന്നു അതിനാൽ നിങ്ങൾ കുറച്ച് സമയം കാത്തിരിക്കുക